അതിനാൽ ഒരു വിഎൽഎസ്ഐ ചിപ്പിലെനെറ്റ് റൂട്ടിംഗുമായിബന്ധപ്പെട്ട് ക്ലോക്ക് പവർ നെറ്റ് എന്നിവയ്ക്ക് വളരെ സവിശേഷമായ സവിശേഷതകൾ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ക്ലോക്കിന് പ്രധാന ആവശ്യകത സന്തുലിതാവസ്ഥയാണ് ഒന്നിലധികം പോയിന്റുകളിൽ എത്തുന്ന ക്ലോക്ക് സിഗ്നലുകൾഏതാണ്ട് ഒരേ സമയം തന്നെ എത്തണം അവ ബന്ധപ്പെട്ടിരിക്കുന്നു അവർ ബന്ധമില്ലാത്തവരാണെങ്കിൽ ഞാൻ അത് കാര്യമാക്കുന്നില്ല ശരിയാണ് അതിനാൽ ക്ലോക്ക് നെറ്റിന് ധാരാളം ടെർമിനൽ പോയിന്റുകളുണ്ട് ഒരു ഗ്രൌണ്ട് അല്ലെങ്കിൽ പവർ നെറ്റിന്സമാനമാണ് അതിനാൽ നിങ്ങൾ ചിപ്പുകളിലുടനീളം വിഡിഡിയും ഗ്രൌണ്ട് സിഗ്നലുംവിതരണം ചെയ്യുമ്പോൾ ടെർമിനൽ പോയിന്റുകളുടെ എണ്ണം എണ്ണത്തിൽ വലുതാണ് എന്നതാണ് ഘടികാരത്തിന് ഒരു സമാനത നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് സെൽതരം ലേഔട്ട് പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ സ്റ്റാൻഡേർഡ് സെല്ലുകളും അവർക്ക് ഒരു പവർ ഗ്രൌണ്ട് കണക്ഷൻ ഉണ്ടാകും അതിനാൽ നിങ്ങൾ അവയെല്ലാം പവറും ഗ്രൌണ്ടും നൽകണം പക്ഷേ ക്ലോക്ക് ചെയ്ത റൂട്ടിംഗിൽ നിന്ന് വ്യത്യാസമുണ്ട് ക്ലോക്ക്ഡ് റൂട്ടിംഗിൽ എക്വലിസഷൻ ഓഫ് സ്കൂ സ്ക്യൂ മിനിമൈസേഷൻ ക്ലോക്ക് ഏതാണ്ട് ഒരേ സമയം എത്തണം പക്ഷേ പവറിലും ഗ്രൌണ്ടിലും ആവശ്യകത വ്യത്യസ്തമാണ് അതിനാൽ സിഗ്നലിംഗ് ഇല്ല ഞാൻ വിഡിഡിയിലും ഗ്രൌണ്ട് ലൈനുകളിലും സ്ഥിരമായ വോൾട്ടേജ് പ്രയോഗിക്കുന്നു അതിനാൽ ഞാൻ ഓടിക്കുന്ന സർക്യൂട്ടുകളിലൂടെ ഏത് വൈദ്യുതധാര വരച്ചാലും എന്റെ വൈദ്യുതി ലൈനുകളോ ട്രാക്കുകളോ ആവശ്യമായ വൈദ്യുതി പ്രവർത്തിപ്പിക്കാൻ പര്യാപ്തമാണ് എനിക്ക് ഉയർന്ന ശക്തി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ട്രാക്കുകൾ വിശാലമാക്കും എനിക്ക് ആ ഉയർന്ന ശക്തി ആവശ്യമില്ലെങ്കിൽ എനിക്ക് അത് ഇടുങ്ങിയതാക്കാൻ കഴിയും വീണ്ടും ക്ലോക്ക് പോലെ പവർ റൂട്ടിംഗിൽ പവർ റൂട്ടിംഗും ഒരു ലെയറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ പലപ്പോഴും ആഗ്രഹിക്കില്ല അതിനാൽ വയർ കണക്ഷനുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അവ മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കാത്ത വിശ്രമം വീണ്ടും മിക്ക കണക്ഷനുകളും ഒരു പ്ലാനർ രീതിയിൽ ഒരേ ലെയറിലായിരിക്കണം കാരണം ഞങ്ങൾ ലെയറുകളിലൂടെ മാറുമ്പോൾ നിങ്ങളുടെ കാലതാമസം അല്ലെങ്കിൽ മറ്റ് പരസിറ്റിക്സ് ചെയ്യും മുകളിലേക്ക് പോകുക വൈദ്യുതി വിതരണ ലൈനിൽ ശബ്ദം വർദ്ധിക്കും നിങ്ങൾക്ക് കുറച്ച് ശബ്ദവും ലഭിക്കും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ പവർ നെ കുറിച്ചും ഗ്രൌണ്ട് റൂട്ടിംഗിനെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ഞാൻ ഇതിനകം സംസാരിച്ച അടിസ്ഥാന പ്രശ്നം ഒരു വിഎൽഎസ്ഐ ചിപ്പിൽ ലേഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിസൈനിലെ മിക്കവാറും എല്ലാ ബ്ലോക്കുകളും വൈദ്യുതിയും ഗ്രൌണ്ട് കണക്ഷനുകളും ആവശ്യമായി വരും അതിനാൽ പവർ ഗ്രൌണ്ട് പിൻസ്എന്നിവ ചിപ്പിലുടനീളം മാത്രമേയുള്ളൂ എല്ലായിടത്തും ഉണ്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ച കാരണങ്ങൾ കാരണം അവ സാധാരണയായി ഒരേ ലെയറിലും മെറ്റൽ ലെയറിലും സ്ഥാപിച്ചിരിക്കുന്നു മറ്റ് ലെയറുകളിൽ എന്തുകൊണ്ട് ലോഹ പാളിയുടെ പ്രതിരോധം വളരെ മികച്ചതായതിനാൽ അതിന്റെ പ്രതിരോധം കുറവാണ് അതിനാൽ സിഗ്നൽ അപചയം മറ്റ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും ഇതിന് വലിയ വൈദ്യുത പ്രവാഹങ്ങൾ വഹിക്കാനും കഴിയും അതിനാലാണ് എല്ലാ പവർ നെറ്റ്വർക്കുകളും ലോഹ പാളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചെറുത്തുനിൽപ്പ് ചെറുതും പ്ലാനാർ സിംഗിൾ ലെയർനടപ്പിലാക്കുന്നതിനായി സാധ്യമായതെന്തും വയർ കണക്ഷൻ വളരെ അത്യാവശ്യമല്ലെങ്കിൽ അത് കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിനാൽ VDD യ്ക്കും പവർ റൂട്ടിംഗിനുംവേണ്ടിയുള്ള ക്ലോക്ക് പോലെ ഞങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങൾ ആവശ്യമാണ് അതിനാൽ ക്ലോക്കിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ട് ഘട്ടങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആദ്യം ഒരു ക്ലോക്ക് ട്രീരൂപകൽപ്പന ചെയ്യുക തുടർന്ന് ക്ലോക്ക് ട്രീ യഥാർത്ഥ ടെർമിനലുകളിലേക്ക് വിതരണം ചെയ്യുക എന്നാൽ പവർ ഗ്രൌണ്ട് റൂട്ടിംഗ് എന്നിവയ്ക്കായി ഈ രണ്ട് ഘട്ടങ്ങളും തീർച്ചയായും ആദ്യപടി സമാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള ടോപ്പോളജി നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് വൈദ്യുതി ലൈനുകൾ ആവശ്യമായിരുന്നെങ്കിൽ എല്ലാ പോയിന്റുകളിലേക്കും കണക്ഷനുകൾ ഉണ്ടാക്കും രണ്ടാമതായി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ബ്ലോക്കുകളെയും അവയുടെ നിലവിലെ ആവശ്യകതകളെയും ആശ്രയിച്ച് വയറുകളുടെ വിവിധ സെഗ്മെന്റുകളുടെ ഉചിതമായ വീതി നിങ്ങൾ നിർണ്ണയിക്കുന്നു പവർ ഔട്ടിങ് ഇത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ പവർനായി നിങ്ങളുടെ ലൈൻ ഇതുപോലെയാകാം വളരെ കട്ടിയുള്ള ഒരു ലൈനിൽ നിന്ന് ആരംഭിക്കുക അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പവർ രണ്ട് വ്യത്യസ്ത ലൈനുകളിലേക്ക് നൽകുന്നു ഇത് നേർത്തതായിരിക്കും ഇതുപോലുള്ള ഒന്ന് അവിടെ നിന്ന് നിങ്ങൾ മൂന്ന് വ്യത്യസ്ത പോയിന്റുകളിലേക്ക് ഭക്ഷണം നൽകുന്നു ഇത് കൂടുതൽ നേർത്തതായിരിക്കും അതിനാൽ മൊത്തം ഡ്രൈവിംഗ് ആവശ്യകതകളെ ആശ്രയിച്ച് ലൈനുകളുടെ വീതി വ്യത്യാസപ്പെടും അതിനാൽ ഇത് ഇതുപോലെ കാണപ്പെടും അതിനാൽ പവർനുംഗ്രൌണ്ട് റൂട്ടിംഗിനും ഒന്ന് പവർനും മറ്റൊന്ന് ഗ്രൌണ്ടിനും നിങ്ങൾക്ക് രണ്ട് പരസ്പരബന്ധിത വൃക്ഷം ആവശ്യമാണ് വ്യക്തമായും ഇന്റർ നോൺ ഇന്റർസെക്റ്റിംഗ്ഉണ്ടാകും കാരണം ഒന്ന് VDD യ്ക്കും മറ്റൊന്ന് ഗ്രൌണ്ടിനും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രത്യേക ശാഖയിലെ മരങ്ങളുടെ വീതി അത് വരയ്ക്കാൻ പ്രതീക്ഷിക്കുന്ന മൊത്തം വൈദ്യുതധാരയ്ക്ക് ആനുപാതികമായിരിക്കണം അതിനാൽ മരത്തിന്റെ വേരിൽ നിന്ന് വീതി കൂടുതൽ വിശാലമായിരിക്കും പക്ഷേ നിങ്ങൾ ലീഫ് ലേക്ക് നീങ്ങുമ്പോൾ വയറുകൾ നേർത്തതും നേർത്തതുമായിത്തീരും അതിനാൽ ഞങ്ങൾ വിശാലമായി രണ്ട് സമീപനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആദ്യ സമീപനത്തെ ഒരു ഗ്രിഡ് ഘടനഎന്ന് വിളിക്കുന്നു അതിനാൽ ഗ്രിഡ് ഘടന എന്താണ് പറയുന്നത് വിഡിഡിക്കും ഗ്രൌണ്ടിനുമായി നിരവധി വരികൾ തിരശ്ചീന വയറുകൾ പരസ്പരം സമാന്തരമായി ലോഹ പാളിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇത് പറയുന്നു ലംബ വയറുകൾ മറ്റൊരു പാളിയിൽ പ്രവർത്തിക്കുകയും തിരശ്ചീന വയറുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ബ്ലോക്ക് അടുത്തുള്ള VDD യുമായി ബന്ധിപ്പിക്കുന്നു സ്റ്റാൻഡേർഡ് സെൽതരത്തിലുള്ള ഡിസൈനുകൾക്ക് ഈ ഗ്രിഡ് ഘടന വളരെ അനുയോജ്യമാണെന്ന് കാണുക നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻനമുക്ക് ഓർമ്മിക്കാം അതിനാൽ ഈ സാധാരണ സെല്ലിന്റെ ചില വരികൾ ഞാൻ ഒരു സാധാരണ ഡിസൈനിൽ കാണിക്കുന്നു അതിനാൽ ഞാൻ 3 സ്റ്റാൻഡേർഡ് സെൽ വരികൾ ശരിയായി കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നു നിങ്ങൾ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് സെല്ലിൽസ്ഥാപിക്കുമ്പോഴെല്ലാം സെല്ലിന് ഒരു പ്രത്യേക സ്വത്ത് ഉണ്ട് അതിന്റെ വിഡിഡി മുകളിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നു ഗ്രൌണ്ട് ലൈൻ അടിയിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നു എല്ലാ കോശങ്ങളിലുമുള്ള അവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ ഒന്നുതന്നെയാണ് അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ വരികളിലുടനീളം ചില സെല്ലുകൾ സ്ഥാപിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഇവിടെയും നിങ്ങൾ ചില സെല്ലുകൾ സ്ഥാപിക്കുന്നു ഇവിടെയും നിങ്ങൾ ചില സെല്ലുകൾ സ്ഥാപിക്കുന്നു ഇപ്പോൾ ഈ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും നിങ്ങൾ കാണുന്നു കാരണം അവ പരസ്പരം തൊട്ടുകിടക്കുന്നതിനാൽ അവ പരസ്പരം സ്പർശിക്കും അതിനാൽ സെല്ലുകളിലുടനീളമുള്ള തിരശ്ചീന റൂട്ടിംഗിനായി ഇത് ഇതിനകം ചെയ്തു അതിനാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിനാൽ ഇത് തുടർച്ചയായ ലൈൻ പോലെയാണ് അതിനാൽ ഈ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും ഇതിനകം തിരശ്ചീനമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവയെ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം ലോഹ പാളികളിൽ പ്രവർത്തിക്കുന്നു ശരിയാണ് അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മറ്റൊരു പാളി ഉപയോഗിക്കാം അതിനാൽ ഞാൻ ഇത് വ്യത്യസ്ത നിറത്തിൽ കാണിക്കുന്നു രണ്ടും തീർച്ചയായും ലോഹ പാളികളായിരിക്കും ഇത് വയർ കണക്ഷനായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വയർ കണക്ഷനുകൾ ഒഴിവാക്കാനാവില്ല ഇത് നിങ്ങളുടെ VDD കണക്ഷൻ ആയിരിക്കും ഇത് നിങ്ങളുടെ ഗ്രൌണ്ട് കണക്ഷനായിരിക്കും അതിനാൽ ഒരു ലെയറിൽ നിങ്ങൾ VDD പ്രവർത്തിപ്പിക്കും ഗ്രൌണ്ട് കണക്ഷൻ ലംബമായും മറ്റൊരു മെറ്റൽ ലെയറിലും പറയുക അതിനാൽ കോശങ്ങളിലുടനീളമുള്ള എല്ലാ ലോഹ പാളികളും തിരശ്ചീനമായി പ്രവർത്തിക്കുന്നു അവ വയർ കണക്ഷനെ ലംബ വരകളുമായി ബന്ധിപ്പിക്കും കൂടാതെ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈനിന്റെ കാര്യത്തിൽ ലേ ഔട്ട് വളരെ പതിവായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇതുപോലെ കാണപ്പെടും ശരിയാണ് അതിനാൽ നമുക്ക് തുടരാം അതിനാൽ ഇവിടെ ഞാൻ ഇതുപോലൊന്ന് കാണിച്ചിരിക്കുന്നു ഇതാണ് ഞാൻ ഇവിടെ കാണിക്കുന്ന രണ്ട് സമാന്തര വിഡിഡിയും ഗ്രൌണ്ടും അവർ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് ഞാൻ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നു പക്ഷേ പകരം നിങ്ങൾക്ക് ഇത് ചെയ്യാനാകും ഞാൻ അവരെ ഒരു വശത്ത് നിന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിനാൽ ഇവിടെ കാണുക അതിനാൽ എനിക്ക് മറ്റൊരു പാളി ആവശ്യമായിരുന്നു എനിക്ക് വയർ കണക്ഷൻ ആവശ്യമാണ് എന്നാൽ ഞാൻ ഒരു വശത്ത് നിന്ന് വിഡിഡിയും മറുവശത്ത് നിന്ന് നിലത്തുമാണ് നൽകുന്നത് എന്ന് കരുതുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള കണക്ഷൻ ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് ഈ പ്രത്യേക പാളി ആവശ്യമില്ല അതിനാൽ ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരൊറ്റ പാളിയിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും VDD കണക്ഷനുകളെല്ലാം ഈ ഇടത് ലംബ ലെയറിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു കൂടാതെ ഗ്രൌണ്ട് കണക്ഷൻ ഈ ലംബ ലെയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ തിരശ്ചീന കണക്ഷനുകൾ സാധാരണയായി 4 ലോഹത്തിലാണ് 4 അല്ലെങ്കിൽ 5 ൽ എന്തും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില അധിക ലംബ കണക്ഷനുകളും ചേർക്കാൻ കഴിയും അതായത് വ്യത്യസ്ത വൈദ്യുതി വിതരണ പോയിന്റുകളിലുടനീളമുള്ള തടസ്സങ്ങൾ കുറവായിരിക്കാം പക്ഷേ ഇത് വഴി അല്ലെങ്കിൽ പുറത്തേക്ക് ഓപ്ഷണൽ ആണ് പക്ഷേ അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആശയം നിങ്ങൾക്ക് ഇത് ഇതുപോലെ നൽകാം ഇടതുവശത്തുള്ള പോയിന്റുകളിൽ വയറുകൾ കട്ടിയുള്ളതായി കാണിക്കുന്നതായി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പക്ഷേ ഞങ്ങൾ സെല്ലുകളിലേക്ക് പോകുമ്പോൾ അത് നേർത്തതായിത്തീർന്നു അതിനാൽ ഒരു വയർ വലുപ്പമുണ്ട് അതിനാൽ ഗ്രിഡ് പോലുള്ള ഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമാനമായ മറ്റൊരു സമീപനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അതിനാൽ സാധാരണ സെല്ലിന് ആവശ്യമില്ലാത്ത കുറച്ചുകൂടി പൊതുവായ സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ചിപ്പിന്റെ മുഴുവൻ കാമ്പിനും ചുറ്റുമുള്ള ഒരു മോതിരം സൃഷ്ടിക്കാൻ കഴിയും ഇത് പോലെ ചുറ്റുമുള്ളവയെല്ലാം റിംഗ് എന്ന് വിളിക്കുന്നു ഒരു ചിപ്പിന് ചുറ്റുമുള്ള ഒരു മോതിരം നിങ്ങൾ നിർവ്വചിക്കുന്നു തുടർന്ന് നിങ്ങൾ IO പാഡുകൾറിംഗുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ എല്ലാ I O പാഡുകളും അവർ റിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു I O പാഡുകൾ VDD അല്ലെങ്കിൽ ഗ്രൌണ്ട് കണക്ഷനുകൾക്ക് ഭക്ഷണം നൽകും അവയെല്ലാം റിംഗുമായി ബന്ധിപ്പിച്ച് ഒരു മെഷ് സൃഷ്ടിക്കുക അതിനാൽ ചിപ്പിനുള്ളിൽ നിങ്ങൾ ഒരു ക്ലോക്ക് മെഷ് പോലെ ഒരു പവർ മെഷ്സൃഷ്ടിക്കുന്നു അതിൽ ഒരു കൂട്ടം സ്ട്രൈപ്പുകൾ അടങ്ങിയിരിക്കുന്നു പിച്ച് എന്നാൽ വിടവ് രണ്ടോ അതിലധികമോ പാളികളിൽ നിർവചിക്കപ്പെട്ട വിടവുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇവിടെ ഓരോന്നും ഇവ ഓരോന്നും ഇവ രണ്ടോ അതിലധികമോ പാളികളിൽ നിങ്ങൾ അത്തരം ലോഹ വരകൾ സൃഷ്ടിക്കുന്നു അങ്ങനെ ലോഹ കണക്ഷനുകൾ ലഭ്യമാകും ഒന്നിലധികം പാളികളിലെ വൈദ്യുതി കണക്ഷനുകളും കാരണം ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ കണക്ഷനുകൾ ഒന്നിലധികം ലെയറുകളിലും ലഭ്യമാക്കേണ്ടതുണ്ട് അതിനാൽ മെഷ് അതിനനുസൃതമായി റെയിലുകൾ സൃഷ്ടിച്ചു കാണിച്ചിരിക്കുന്ന ലംബ രേഖകൾ ഇവ ചില ലോഹ പാളികളിൽ സൃഷ്ടിക്കുകയും ലോഹ പാളികൾ മെഷുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുപോലൊന്ന് നിങ്ങൾ വൈദ്യുത ലൈനുകളുടെ ഒരു മെഷ് സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ ഗ്രൌണ്ട് ലൈനുകളും അവ ഒന്നോ അതിലധികമോ ലോഹ പാളികളിൽ ലഭ്യമാകും അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലോക്കുകളിൽ ഈ പാളികളിൽ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാം അതിനാൽ ആശയം ഇതുപോലുള്ളതും നിങ്ങൾ പൂർത്തിയാക്കിയ ചില ഡിസൈനുകളും ആയിരുന്നു അതിനാൽ ഈ ബ്ലോക്ക് പോലെ അവ വേർതിരിച്ച ചില ലോഹ പാളികൾ ഞാൻ കാണിക്കുന്നു അതിനാൽ ലോഹം 4 ലോഹം 6 ലോഹം 8 അങ്ങനെ നിരവധി ലോഹവൽക്കരണം അതിനാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള പാളിയാണ് കണക്ഷൻ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അവിടെ വീതി അവയുടെ വേർതിരിക്കൽ എല്ലാം വ്യത്യസ്തമായിരിക്കും വിഎൽഎസ്ഐ ഫാബ്രിക്കേഷനുകൾക്ക് ഇപ്പോൾ ഒരു കാര്യം ശരിയാണ് നിങ്ങൾ ലെയറുകളിൽ മുകളിലേക്കും മുകളിലേക്കും നീങ്ങുമ്പോൾ നിങ്ങളുടെ ലൈനുകളുടെ വീതി കട്ടിയുള്ളതും കട്ടിയുള്ളതും വീതിയും വീതിയും ആയിത്തീരുന്നു അതിനാൽ മുകളിലെ പാളികളിലൊന്നിൽ വൈദ്യുതി ലൈനുകൾ വിന്യസിക്കുന്നതാണ് നല്ലത് കാരണം അവ ആയിരിക്കും ഏത് സാഹചര്യത്തിലും കട്ടിയുള്ളതായിരിക്കും അവർക്ക് കൂടുതൽ വൈദ്യുത പ്രവാഹങ്ങൾ വഹിക്കാൻ കഴിയും അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ അടിസ്ഥാന ആശയം മാത്രം അതിനാൽ ഈ രണ്ടാമത്തെ സമീപനം പറയുന്നത് ഞങ്ങൾ ഇവിടെ ഒരു പൂർണ്ണ കസ്റ്റം തരത്തിലുള്ള ഡിസൈനിനായി ഇത് പ്രയോഗിക്കുന്നില്ല എന്നാണ് അതിനാൽ ഞാൻ ഇതിനകം ലംബവും തിരശ്ചീനവുമായ കണക്ഷൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല അവിടെ നിന്ന് ഞാൻ പവറും ഗ്രൌണ്ടും എടുക്കുന്നു ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം എനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ഇതാണ് ഇത് ഒരു സമ്പൂർണ്ണ ആചാരമാണ് അതിനാൽ ഇവിടെ എനിക്ക് ഇവിടെ ഒരു വിഡിഡി കണക്ഷൻ ആവശ്യമാണ് എനിക്ക് ഇവിടെ ഒരു ഗ്രൌണ്ട് കണക്ഷൻ ആവശ്യമാണ് എനിക്ക് ഇവിടെ ഇതുപോലെ മറ്റൊരു ബ്ലോക്ക് ഉണ്ടെന്ന് കരുതുക അതിനാൽ എനിക്ക് ഇവിടെ VDD കണക്ഷൻ ആവശ്യമാണ് എനിക്ക് ഇവിടെ ഒരു ഗ്രൌണ്ട് കണക്ഷൻ ആവശ്യമാണ് അതിനാൽ എനിക്ക് ഇവിടെ ഒരു ഗ്രൌണ്ട് കണക്ഷൻ ആവശ്യമാണ് അതുപോലെ എനിക്ക് ഇവിടെ മറ്റൊരു ബ്ലോക്ക് ഇവിടെ വിഡിഡി ഇതുപോലുള്ള എന്തെങ്കിലും ഇവിടെ ഗ്രൌണ്ട് ചെയ്യാം അതിനാൽ ഇപ്പോൾ എന്റെ യഥാർത്ഥ പ്രശ്നത്തെ ആശ്രയിച്ച് നമുക്ക് ഒരു മരം നിർമ്മിക്കാം എന്നതാണ് ആവശ്യം അപ്പോൾ വിഡിഡി അടുത്തത് എവിടെയാണ് VDD യ്ക്കായി എനിക്ക് കണക്റ്റുചെയ്യേണ്ട 3 പോയിന്റുകൾ ഇതാണ് ഇവയാണ് ഗ്രൌണ്ടിനായി ഞാൻ ബന്ധിപ്പിക്കേണ്ട 4 പോയിന്റുകൾ അതിനാൽ ഈ രണ്ടുപേർക്കും രണ്ട് വിപരീത ദിശയിൽ നിന്ന് നീങ്ങുന്ന രണ്ട് മരങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇവയെ ഇന്റർ ഡിജിറ്റ് മരങ്ങൾഎന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഇത് ചിട്ടയായ രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ശക്തിയുടെയും ഭൂമിയുടെയും ഒരു ലേഔട്ട് ലഭിക്കും ഒരേ പാളിയിലെ വരികൾ നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുപ്പം പരിഗണിക്കാം വ്യത്യസ്ത ബ്ലോക്കുകളുടെ നിലവിലെ ആവശ്യകതകൾ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം വ്യത്യസ്ത വയറുകളുടെ വീതി ശരിയായി നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് VDD യിൽ ഒരെണ്ണവും ചിപ്പിന്റെ ഇടത് അറ്റത്ത് നിന്നാണ് ആരംഭിക്കുന്നത് മറ്റൊന്ന് ചിപ്പിന്റെ വലത് അറ്റത്ത് നിന്ന് ആരംഭിക്കുകയും ചില ഉദാഹരണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റൂട്ടിംഗ് ആസൂത്രകനാണ് നിങ്ങൾക്ക് ഇത് ഒരേ ലെയറിൽ ചെയ്യാനാകുമെന്ന അർത്ഥത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലീയുടെ അല്ലെങ്കിൽ ലൈൻ തിരയൽLee's or line searchതരത്തിലുള്ള അൽഗോരിതങ്ങൾ അല്ലെങ്കിൽ അവയുടെ സംയോജനം ഉപയോഗിക്കാം അതിനാൽ ഈ തന്ത്രം നിങ്ങൾ ഇടത് നിലത്ത് നിന്ന് ആരംഭിക്കുന്ന വിഡിഡി കാണുന്നു ഞങ്ങൾ വലത് നിന്ന് ആരംഭിക്കുന്നു നമുക്ക് പറയാം നമുക്ക് ആദ്യം VDD ചെയ്യാം അതിനാൽ തുടക്കത്തിൽ റൂട്ടിംഗ് ഏരിയകളിൽ ഭൂരിഭാഗവും എനിക്ക് ലഭ്യമാണ് അതിനാൽ തുടക്കത്തിൽ ഞാൻ ലീയുടെ ഉപയോഗിക്കട്ടെ ലീയുടെ അല്ല ആദ്യ അൽഗോരിതം ലൈൻ തിരയൽ ഹൈട്ടവറിന്റെ അൽഗോരിതംHightower's algorithmഉപയോഗിച്ചുവെന്ന് പറയട്ടെ അതിനാൽ എനിക്ക് വേഗത്തിൽ ചില വഴികൾ ലഭിക്കും അതിനാൽ വിഡിഡി നെറ്റ്കൾ എങ്ങനെ ബന്ധിപ്പിക്കാം അതിനാൽ ഞാൻ VDD വലകൾ ബന്ധിപ്പിച്ചുകഴിഞ്ഞാൽ ചില ലൈനുകൾ ഇതിനകം സ്ഥാപിക്കുകയും അവ തടയുകയും ചെയ്തു മറുവശത്ത് നിന്ന് ഇപ്പോൾ ഗ്രൌണ്ട് നെറ്റ് വരുന്നു അതിനാൽ ചില സമയങ്ങളിൽ അത്തരം അൽഗോരിതം ഒരു പാത കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് കണ്ടെത്തിയേക്കാം കാരണം ചില പാതകൾ തടഞ്ഞേക്കാം അതിനാൽ സങ്കീർണ്ണമായ പാത ലഭ്യമാണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് ഇവിടെ നിങ്ങൾക്ക് ഒരു അൽഗോരിതം ഉപയോഗിക്കാം കാരണം നിങ്ങൾ ലീയുടെ അൽഗോരിതം ഓർക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും പാത കണ്ടെത്തും അതിനാൽ ആവശ്യമുള്ളപ്പോൾ ഗ്രൌണ്ട് നെറ്റിനായി നിങ്ങൾക്ക് ലീയുടെ അൽഗോരിതം ഉപയോഗിക്കാൻ കഴിയും അത് ഒരു വഴി ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുനൽകും അതിനാൽ ഇതാണ് അടിസ്ഥാന തന്ത്രം അതിനാൽ നെറ്റ് ലെയർ അസൈൻമെൻറിൻറെ ടോപ്പോളജിയെ നിങ്ങൾ പ്ലാനറൈസ്ചെയ്യുന്നത് താഴെപ്പറയുന്നവയാണ് അതിനാൽ ഞങ്ങൾ ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്ന് വിഡിഡിയും റൂട്ട് ചെയ്യുന്നുവെന്ന് പറയുന്ന ഒരു ലളിതമായ ഉദാഹരണം നോക്കാം അതിനാൽ ഇതിന് കുറച്ച് ഗ്രൌണ്ട് വിഡിഡി ആവശ്യകതകളുള്ള അഞ്ച് ബ്ലോക്കുകൾ ഉണ്ട് അതിനാൽ ഗ്രൌണ്ട് ഇതുപോലെ റൂട്ട് ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് VDD ഡോട്ട്ഡ് ലൈൻകാണിച്ച റൂട്ട് VDD നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈനുകളുടെ കനം കനം ഈ ലൈനുകളുടെ വീതി എന്നിവ ക്രമീകരിക്കാൻ കഴിയും ശരിയാണ് അതിനാൽ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം വാസ്തവത്തിൽ അതേ ഉദാഹരണം ഞാൻ കാണിച്ചുതരുന്ന അതേ ഉദാഹരണം നിങ്ങൾ ഒരു വല തിരിക്കുമ്പോഴെല്ലാം ഗ്രൌണ്ട് നെറ്റ് പറയട്ടെ അപ്പോൾ എന്തായിരുന്നു ആവശ്യം ഈ 5 ബ്ലോക്കുകളിൽ ചില ഗ്രൌണ്ട് പിന്നുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ആവശ്യമാണ് അതുപോലെ VDD യ്ക്കുള്ള നെറ്റിനായി ഈ 5 ബ്ലോക്കുകളും അവർ ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഗ്രാഫ് സിദ്ധാന്തത്തിലെ ഒരു ഹാമിൽട്ടോണിയൻ പാതഎന്ന് വിളിക്കുന്നു അതിനാൽ ഗ്രാഫുകളിൽ ഹാമിൽട്ടോണിയൻ പാതയെ ഒരു പാതയായി നിർവചിച്ചിരിക്കുന്നു ഒരു പാതയാണ് അരികുകളുടെ ഒരു ക്രമം ഹാമിൽട്ടോണിയൻ പാത്ത് എന്നാൽ നിങ്ങൾ ഒരു ശീർഷകത്തിൽ ആരംഭിച്ച് അരികുകൾ മറികടന്ന് ഒരു ശീർഷകം ഒരു തവണ മാത്രമേ കടന്നുപോകുകയുള്ളൂ നിങ്ങൾ രണ്ട് തവണ ഒരു ശീർഷകം കടക്കരുത് അതിനാൽ നിങ്ങൾക്ക് ഒരു ഹാമിൽട്ടോണിയൻ പാത ലഭിച്ചുകഴിഞ്ഞാൽ പവർ അല്ലെങ്കിൽ ഗ്രൌണ്ട് ലൈനുകൾ റൂട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാമിൽട്ടോണിയൻ പാത ലഭിച്ചുകഴിഞ്ഞാൽ ഈ ഹാമിൽട്ടോണിയൻ പാതയുമായി ബന്ധപ്പെട്ട ചില തിരശ്ചീനവും ലംബവുമായ ഭാഗങ്ങൾ നിങ്ങൾ ഉൾച്ചേർത്തു അതിനാൽ നീല നിറം ഗ്രൌണ്ട് ലൈനുമായി യോജിക്കുന്നു ചുവപ്പ് VDD ലൈനുമായി യോജിക്കുന്നു അതിനാൽ അവയെല്ലാം ഒരേ പാളിയിൽ ഒരുമിച്ച് ചേർക്കുന്നത് സാധ്യമാണെന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അതിനാൽ അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിലും എവിടെയും വിഭജിക്കുന്നില്ല ഒരു ചീപ്പ് പോലെയുള്ള രണ്ട് മരങ്ങളുണ്ട് അവയെ ഇന്റർ ഡിജിറ്റേറ്റഡ് മരങ്ങൾdigitated treesഎന്ന് വിളിക്കുന്നു അവ വിഭജിക്കുന്നില്ല പക്ഷേ അവ പരസ്പരം വലത്തോട്ട് സ്ഥാപിക്കുന്നു അതിനാൽ ഈ വശത്ത് നിന്ന് ഈ വശത്ത് നിന്ന് നിലത്ത് നിങ്ങൾക്ക് VDD കാണാൻ കഴിയുന്ന മറ്റൊരു ഉദാഹരണം ഇവിടെയുണ്ട് So there VDD net you can see and ground net is coming from the other side So in the same way they get routed So you see that when we talk about VDD and അതിനാൽ അവിടെ നിങ്ങൾക്ക് VDD നെറ്റ് കാണാം മറുവശത്ത് നിന്ന് ഗ്രൌണ്ട് നെറ്റ് വരുന്നു അതിനാൽ അതേ രീതിയിൽ അവർ വഴിതിരിച്ചുവിടുന്നു അതിനാൽ ആശയം ഇതാണ് അതിനാൽ ഞങ്ങൾ വിഡിഡിയെക്കുറിച്ചും ഗ്രൌണ്ട് റൂട്ടിംഗിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ റൂട്ടബിലിറ്റി കഴിയുന്നത്ര ഒരേ ലെയറിൽ റൂട്ടിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കൽ തുടർന്ന് വയറുകളുടെ വ്യത്യസ്ത ഭാഗങ്ങളുടെ വലുപ്പം എന്നിവ പോലുള്ള മറ്റ് ചില പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ പവർ ഗ്രൌണ്ട് റൂട്ടിംഗിനായി ഇവിടെ സംഗ്രഹിക്കാൻ വയർ വീതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് കാരണം വൈദ്യുതി വിതരണ വയറുകൾ ആവശ്യത്തിന് വീതിയില്ലെങ്കിൽ നിങ്ങൾ വയറുകളിലൂടെ കൂടുതൽ കറന്റ് വലിക്കാൻ ശ്രമിക്കും അവ രൂപകൽപ്പന ചെയ്തിട്ടില്ല ആ ഉയർന്ന വൈദ്യുത പ്രവാഹങ്ങൾ കൈകാര്യം ചെയ്യുക വയറുകളിൽ ചില ശാരീരിക തകരാറുകൾ ഉണ്ടാകാം അതിനാൽ നിങ്ങൾക്ക് ഒരു റൂട്ടിംഗ് അൽഗോരിതം ഉണ്ട് അവിടെ വയർ വീതി ഏകീകൃതമാകില്ല ഇത് ഘടികാരങ്ങളിൽ നിന്നോ സിഗ്നൽ വലകളിൽ നിന്നോ വ്യത്യസ്തമാണ് അവിടെ വയർ വീതി തുല്യമാണ് ഞങ്ങൾ വയറുകളുടെ വീതി മാറ്റുന്നില്ല പക്ഷേ വൈദ്യുതി വിതരണ റൂട്ടിംഗിൽ ഞങ്ങൾ വീതി മാറ്റുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വയറുകളുടെ അതിനാൽ വയറുകളുടെ വലുപ്പം ആവശ്യമാണ് സാധാരണയായി ഒരു റൂട്ടിംഗ് പ്രശ്നത്തിൽ പവർ ഗ്രൌണ്ട് നെറ്റുകൾ എന്നിവ ആദ്യം മറ്റ് എല്ലാ വലകളും പിന്തുടരുന്നു കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ അവ സാധാരണയായി ലോഹ പാളികളിൽ സ്ഥാപിച്ചിരിക്കുന്നു കാരണം പ്രതിരോധം കുറവാണ് ഞാൻ സംസാരിച്ച ചാനൽ റൂട്ടിംഗ് പോലുള്ള സിഗ്നൽ വലകൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ വീണ്ടും കാണുന്നത് പോലെ ചാനൽ റൂട്ടിംഗിനെക്കുറിച്ച് ചിന്തിക്കുക അതിനിടയിൽ ചാനലുള്ള സ്റ്റാൻഡേർഡ് സെൽ വരികൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ നിങ്ങൾ പറഞ്ഞ കാര്യം എല്ലാ കോശങ്ങളിലുമുള്ള വിഡിഡി കണക്ഷനുകൾ ഇതുപോലെ ബന്ധിപ്പിക്കാൻ കഴിയും ഇത് വിഡിഡിക്ക് ഫെഡ് നൽകാം ഇവിടെയുള്ള ഗ്രൌണ്ട് ലൈനുകൾ അവ ഇതുപോലെ ബന്ധിപ്പിക്കാൻ കഴിയും എന്നാൽ അതിനിടയിലുള്ള ചാനലുകൾ ഇവിടെയും നിങ്ങൾക്ക് രണ്ട് പാളികൾ ആവശ്യമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ചില കണക്ഷനുകൾ ഉണ്ടായിരിക്കാം ഇത് ഞാൻ കാണുന്ന ഒരു മാതൃകയാണ് എന്നാൽ നിങ്ങൾക്ക് കടക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ ലംബ ഭാഗങ്ങളിൽ നീലയും തിരശ്ചീന ഭാഗങ്ങളിൽ പച്ചയും മാത്രമേ ഉപയോഗിക്കൂ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കില്ല നിങ്ങൾക്ക് ഇതും ഇതും ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇവിടെ കണ്ടാൽ മാത്രം അതിനാൽ ഞങ്ങളുടെ VDD ഗ്രൌണ്ട് കണക്ഷൻ എന്നിവ റൂട്ട് ചെയ്യുന്നതിനായി ഞങ്ങൾ നീല ലോഹം ചില ലോഹ പാളി ഉപയോഗിക്കുന്നു എന്നാൽ ചാനൽ റൂട്ടിംഗിനിടയിലും നിങ്ങൾക്ക് കഴിയുന്നിടത്തെല്ലാം ഞങ്ങൾ ആ ലോഹ പാളി വീണ്ടും ഉപയോഗിക്കുന്നു ചാനലിനുള്ളിൽ ഞങ്ങൾ വിഡിഡിയും ഗ്രൌണ്ടും റൂട്ട് ചെയ്യുന്നില്ല അതിനാൽ ചാനൽ ഏരിയ അതിനായി ലഭ്യമാണ് എന്നാൽ നിങ്ങൾ സെൽ റൂട്ടിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നീല ലൈൻ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഇതിനകം നീല ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകും മറ്റേതെങ്കിലും പാളി ശരിയായി ഉപയോഗിക്കാൻ അതിനാൽ ചാനലുകൾക്കുള്ളിലെ ഈ സിഗ്നൽ വലകൾ ലോഹ പാളികളെ ശക്തിയും നിലവും പങ്കിടാമെന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നു എന്നാൽ സ്റ്റാൻഡേർഡ് സെല്ലിന്റെ കാര്യത്തിൽ ഒരു പവർ ലെയർ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സെല്ലിലല്ല പൂർണ്ണ കസ്റ്റം ഡിസൈനിനായി അവ ചെയ്യും പാളികൾ മാറ്റേണ്ടതുണ്ട് കാരണം ശക്തിക്കും നിലത്തിനും എല്ലായ്പ്പോഴും ഉയർന്ന മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ പവർ ഗ്രൌണ്ട് ലെയറുകളിൽ വയർ കണക്ഷൻ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കൂടാതെ വ്യക്തമായും പാളി തിരഞ്ഞെടുക്കുന്നത് ലോഹ പാളി അലുമിനിയമാണ് ഇത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധശേഷിയുള്ള ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ അടുത്ത ആഴ്ചയിൽ സമയ വിശകലനം നിങ്ങൾക്ക് സമയ വിശകലനം സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനം ഒരു ഡിസൈൻ വ്യാഖ്യാനിക്കാനോ പരിഷ്ക്കരിക്കാനോ കഴിയുന്ന രീതികൾ എന്നിവയെ കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ആരംഭിക്കും അതുവഴി അവ മികച്ച രീതിയിൽ നിർവഹിക്കാൻ കഴിയും സമയത്തിന്റെ അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു